സെൽ കൾച്ചർ ടെക്നോളജി ലെക്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ എട്ടാമത്തെ ആഴ്ചയിലാണ് എട്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ലെക്ചർ ആരംഭിക്കുകയാണ് നമ്മൾ മുന്നേ പറഞ്ഞ പദ്ധതിയിൽ തുടരുകയാണ് ഇൻവിട്രോ കൾച്ചർ സിസ്റ്റത്തിൽ പേശി ഉണ്ടാക്കുന്ന ശക്തി സൃഷ്ടിക്കുകയോ അളക്കുകയോ ചെയ്യുന്നു ഇവിടെ ഉള്ള ഇൻവിട്രോ കൾച്ചർ സിസ്റ്റം മൈക്രോ കാന്റിലിവർ സിസ്റ്റം ആണ് മൈക്രോ കാൻന്റിലിവർ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുക അപ്പോൾ ഇതാണ് നമുക്ക് ലഭിക്കുന്ന മൈക്രോകാന്റിലിവർ പ്ലാറ്റ് ഫോം അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡൈവിംഗ് ബോർഡുകൾ ഉള്ള ഒരു നീന്തൽ കുളം ആണ് ഇത് എന്ന് സങ്കല്പിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാനായി ഞാൻ ഇവിടെ 3 ഇടുകയാണ് ഇതിൻറെ വിസ്തീർണ്ണം 20 40 അല്ലെങ്കിൽ 100 അങ്ങനെയാകാം ഇതിൽ നാലാമത്തെ അളവ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അത് മനസ്സിലാക്കാൻ ഒരു 3D കാഴ്ചപ്പാട് ആവശ്യമാണ് ഇങ്ങനെയാണ് ഇത് ഇപ്പോൾ കാണപ്പെടുക ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതിൽ ആഴത്തെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു വസ്തുവാണ് അതിൽ നീളം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇതിന് കനം കൂടി ഉണ്ട് ആ കനം വളരെ പ്രധാനമാണ് കനം എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത് എന്നതിലേക്ക് ഞാൻ വരാം അപ്പോൾ മൈക്രോ കാന്റിലിവർ സിസ്റ്റം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അപ്പോൾ കാന്റിലിവറിന്റെ കനമാണ് എത്രത്തോളം അതിന് വളയാൻ സാധിക്കും എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ കാന്റിലിവർ ഞാൻ നേരത്തെ ഉദാഹരണമായി പറഞ്ഞ ഡൈവിങ് ബോർഡുകളെ പോലെ തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള ആന്ദോളന ചലനം ഉണ്ട് അതിനാൽ ഈ ഹിഞ്ച് ജോയിന്റിലെ ഈ ആന്ദോളന ശക്തി അല്ലെങ്കിൽ എത്രത്തോളം മുകളിലേക്കും താഴേക്കും ഇത് ചലിക്കാൻ പോകുന്നു എന്നത് ഇതിൻറെ കനം എത്രത്തോളം കൂടിയിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഘടന കൂടുതൽ കനം കുറഞ്ഞിരുന്നാൽ മികച്ച ചലനശക്തി ലഭിക്കുന്നതായി നിങ്ങൾക്ക് കാണാം അതുകൊണ്ടാണ് കനം പ്രധാനമാണെന്ന് പറഞ്ഞത് ഒരു കേസ് സ്റ്റഡി ഉദാഹരണമായി എടുക്കാം അസ്ഥിപേശി സൃഷ്ടിക്കുന്ന ശക്തിയെയാണ് നമുക്ക് അളക്കേണ്ടത് എന്നിരിക്കട്ടെ വീണ്ടും അസ്ഥിപേശിയിലേക്ക് തന്നെ പോകാം നിങ്ങൾ ഈ പേശി കോശങ്ങൾ ആണ് വളർത്തുന്നത് എന്നിരിക്കട്ടെ ഈ പേശി കോശങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ട് ഈ കോശങ്ങൾ വിഭജിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞപോലെ വിഭജന ശേഷം ഈ കോശങ്ങൾ ഇത്തരത്തിൽ വിന്യസിക്കുന്നു ഇത്തരത്തിൽ വിന്യസിച്ചു കഴിഞ്ഞാൽ അവ ഇത്തരത്തിൽ ലയിക്കുകയും കോശങ്ങൾക്ക് അവയുടെ വ്യക്തിഗത നിലനിൽപ്പ് ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ ഭാഗമാണ് അവർ ഒന്നിച്ച് ലയിക്കുന്നത് ഇതുപോലുള്ള ഒരു ഘടന ഉണ്ടാകുന്നു അവയെ മയോട്യൂബുകൾ എന്ന് വിളിക്കുന്നു ഈ മയോട്യൂബുകളാണ് പേശികളിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ അതിനാൽ പേശി സൃഷ്ടിക്കുന്ന ശക്തിയെ അല്ലെങ്കിൽ പേശീ സങ്കോചം വഴി സൃഷ്ടിക്കപ്പെടുന്ന ശക്തിയെ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമെങ്കിൽ പേശി എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കാം പേശി കോശങ്ങളുടെ യഥാർത്ഥ പ്രവർത്തനം പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള ഒരു സമീപനം ഈ കോശങ്ങളെ കാന്റിലിവറിന് മുകളിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഇത്തരത്തിൽ കോശങ്ങളെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മഞ്ഞനിറത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആണ് കോശങ്ങൾ ഈ കോശങ്ങൾ ക്രമേണ വിഭജിക്കുകയും ക്രമേണ ഇത്തരത്തിൽ ആവുകയും മയോ ട്യൂബുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് മയോ ട്യൂബുകൾ ലഭിക്കുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയോ ട്യൂബുകൾ സങ്കോചിക്കുന്ന ഘടനകൾ ആണ് ഈ മയോട്യൂബുകൾ രൂപപ്പെടുമ്പോൾ ക്രമേണ അവ സങ്കോചിക്കാൻ തുടങ്ങുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മയോ ട്യൂബുകളിലെ ആക്റ്റിൻ മയോസിൻ ഫിലമെന്റുകളുടെ സ്ലൈഡിംഗ് ചലനം അവയെ സങ്കോചത്തിലേക്ക് നയിക്കുന്നു മയോ ട്യൂബുകൾ സങ്കോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചലനമാണ് കാണാനാകുക ഈ സങ്കോചം ശക്തി സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഈ ഉപരിതലത്തിൽ ഈ പേശി സങ്കോചിക്കുകയാണ് ഞാനിവിടെ നിങ്ങൾക്ക് അ കാണിച്ചു തന്നതിന് സമാനമാണിത് ഒരു വ്യക്തി ഡൈവിങ് ബോർഡിൻറെ മുകളിൽനിന്ന് ഇത്തരത്തിൽ ചാടാൻ ആരംഭിച്ചാൽ ഡൈവിങ് ബോർഡ് ഇത്തരത്തിൽ ആന്തോളന ചലനം കാണിക്കും അതെ രീതിയിൽ പേശി കോശങ്ങൾ സങ്കോചിക്കുമ്പോൾ കാന്റിലിവറും മുകളിലേക്കും താഴേക്കും ചലിക്കാൻ തുടങ്ങുന്നു കാന്റി ലിവർ മുകളിലേക്കും താഴേക്കും ചലിക്കാൻ തുടങ്ങുന്നു സ്ലൈഡിങ് ചലനം പേശികളിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാനാകില്ല എന്നാൽ എത്ര ശക്തിയോടെ ആന്തോളന ചലനം നടക്കുന്നു എന്നത് പേശികൾ സൃഷ്ടിക്കുന്ന ശക്തിക്ക് അനുപാതം ആയിരിക്കും അപ്പോൾ മയോ ട്യൂബുകൾ സൃഷ്ടിക്കുന്ന ശക്തി അനുസരിച്ച് ചില തരത്തിലുള്ള ആന്തോളനചലനങ്ങൾ ഇവിടെ നടക്കുന്നതായി കാണാം ഇപ്പോൾ ഈ ആന്തോളന ചലനം നടക്കുമ്പോൾ രണ്ടു കാര്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുത്താവുന്നതാണ് ഈ ആന്തോളനം സൃഷ്ടിക്കപ്പെടുന്ന ശക്തിയുമായി നേരിട്ട് അനുപാതത്തിലാണ് ഈ ചലനം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അളക്കാൻ കഴിയുകയാണെങ്കിൽ ഈ 2 വാക്കുകൾ പരസ്പരം അനുപാതത്തിൽ ആയിരിക്കുന്നത് കാണാം ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള കാന്റിലിവർ എന്ന് കരുതുക ഇത് ആന്തോളന ചലനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ കോണിൽ വരുന്ന വ്യത്യാസമാണ് അളക്കുന്നത് എന്നിരിക്കട്ടെ ഇതാണ് നിങ്ങളുടെ ബേസ്ലൈൻ എന്നിരിക്കട്ടെ ഇവിടെ ഞാൻ ബേസ് ലൈൻ വരയ്ക്കാം ഇതാണ് നിങ്ങളുടെ ബേസ് ലൈൻ എന്ന് കരുതുക അപ്പോൾ ആന്തോളനം നടക്കുമ്പോൾ അടുത്തഘട്ടം ഇത്തരത്തിൽ ഒന്ന് ആയിരിക്കും ശരിയല്ലേ ഇത് നിങ്ങളുടെ ബേസ് ലൈൻ ലൈനിൽ നിന്ന് ചലിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോണിനെ ɵ എന്നുവിളിക്കാം പിന്നീട് ഇത് തിരിച്ചു പോകുന്നു വീണ്ടും ഇത് താഴേക്ക് ചലിച്ചു വീണ്ടും അത് അതിൻറെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു വീണ്ടും അത് വളയുന്നു പൂർവ്വസ്ഥിതി എത്തുന്നു വീണ്ടും വളയുന്നു പൂർവ്വസ്ഥിതി എത്തുന്നു വീണ്ടും വളയുന്നു പൂർവ്വസ്ഥിതി എത്തുന്നു നിങ്ങൾ തുടർച്ചയായി ഈ തീറ്റ ɵ theta കോൺ അളക്കുകയാണെങ്കിൽ സാധാരണ ഗതിയിൽ ആ അളവിൽ മാറ്റം ഉണ്ടാകാറില്ല തീറ്റ കോണിന്റെ അളവിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻറെ ശരാശരി എടുക്കാവുന്നതാണ് തീറ്റ കോണിന്റെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോണിസ് സമവാക്യം ഉപയോഗിക്കാവുന്നതാണ് വളരെ പണ്ട് തൊണ്ണൂറാം നൂറ്റാണ്ടിൻറെ തുടക്കത്തിലാണ് സ്റ്റോണിസ് സമവാക്യം വികസിപ്പിച്ചെടുത്തത് നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാവുന്നതാണ് തീറ്റയുടെ മൂല്യം സ്റ്റോണിസ് സമവാക്യത്തിൽ കൊടുത്തു നോക്കാവുന്നതാണ് ഇത്തരത്തിൽ സ്റ്റോണിസ് സമവാക്യത്തെ ആസ്പദമാക്കി മയോ ട്യൂബുകൾ സൃഷ്ടിക്കുന്ന ശക്തിയെ അളക്കാവുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യം ഒരൊറ്റ മയോട്യൂബിനെ ആണ് പരിമിത അളവിലുള്ള ഒരൊറ്റ മയോ ട്യൂബിന്റെ അതിൽനിന്ന് പേശി സൃഷ്ടിക്കുന്ന ശക്തി കണക്കാക്കി എടുക്കുകയാണെങ്കിൽ ലഭിക്കുന്ന മൂല്യം യഥാർത്ഥത്തിൽ പേശി സൃഷ്ടിക്കുന്ന ശക്തിയോട് ഏകദേശം അടുത്തായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ പേശി സൃഷ്ടിക്കുന്ന ശക്തി കണക്കാക്കി എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ട ശക്തിയുമായി വളരെ അടുത്ത ഒരു മൂല്യം തന്നെയാണ് ലഭിക്കുക അതായത് വ്യക്തിഗത പേശി സൃഷ്ടിക്കുന്ന ശക്തി എന്നാൽ ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സാങ്കേതിക വിദ്യ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇത്തരത്തിൽ ഒരു വെൽ നിർമ്മിക്കുമ്പോൾ അതിൽ വളരെ കുറഞ്ഞ പരിമിത അളവിലുള്ള മീഡിയം മാത്രമേ ചേർക്കാൻ ആകൂ അതിന് ഒരുപാട് ഒരുപാട് ഒപ്റ്റിമൈസേഷൻ പ്രക്രിയ ആവശ്യമാണ് രണ്ടാമതായി അവിടെ മറ്റൊരു വെല്ലുവിളി ഉണ്ട് ഇവിടെ മയോ ട്യൂബ് രൂപപ്പെടുന്നതിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല ആഴം കുറവാണ് ഇവിടെ അതുകൊണ്ട് ഈ മയോ ട്യൂബുകൾ താഴേക്കു വരികയും കാന്റിലിവ റിൻറെ ചലനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യാം നിങ്ങൾക്ക് അത് എങ്ങനെ ഒഴിവാക്കാനാകും അതൊഴിവാക്കാൻ ഒരു ഉദാഹരണം പറയാം കോശങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉപയോഗിച്ച് ഈ പ്രതലത്തെ ആവരണം ചെയ്യുകയോ പ്രതലത്തിൽ തളിക്കുകയോ ചെയ്യാം അത്തരത്തിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ പ്രതലത്തെ നിങ്ങൾ ആവരണം ചെയ്യുകയാണ് ഈ ഉപരിതലങ്ങളിൽ ഒരിക്കലും ഒന്നും വളരാത്ത വിധം നിങ്ങൾ ആദ്യമേ അതിനെ ആവരണം ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ പ്രതലങ്ങൾ സൈറ്റോ ഫോബിക് ആണെന്ന് ഉറപ്പുവരുത്തുകയാണ് കോശങ്ങൾ ഈ ഉപരിതലത്തിൽ വളരാൻ ഭയപ്പെടും സമാന്തരമായി ഈ ഉപരിതലങ്ങളിൽ കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന എന്തെങ്കിലും വെച്ച് ആവരണം ചെയ്യുകയും വേണം ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള കാന്റിലിവറുകളുടെ മുകൾ ഉപരിതലം കോശവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതും കീഴ്ഭാഗം കോശവളർച്ചയെ പ്രോത്സാഹിപ്പിക്കാത്തതുമാണ് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു മൈക്രോ കാന്റിലിവർ പാറ്റേൺ ആണെന്ന് പറയാം മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമാണ് ഇത്തരം പാറ്റേൺ മൈക്രോ കാന്റിലിവർ അപ്പോൾ ഇതിൻറെ മെക്കാനിക്കൽ ഭാഗത്തെക്കുറിച്ച് ആണ് നമ്മൾ കണ്ടത് ഉടനെതന്നെ ഇതിൻറെ ഇലക്ട്രിക്കൽ ഭാഗത്തെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് പുറകിലോട്ട് പോകാം നമ്മളുടെ പ്രശ്നം ഒരു ഇൻവിട്രോ സെൽ കൾച്ചർ മൈക്രോ കാന്റിലിവർ സിസ്റ്റത്തിൽ പേശി സൃഷ്ടിക്കുന്ന ശക്തിയെ അളക്കുക എന്നതായിരുന്നു അത് അസ്ഥിപേശിയോ ഹൃദയപേശിയോ മിനുസപേശിയോ ആകാം അപ്പോൾ ഈ രണ്ട് ക്ലാസുകളിൽ നമ്മൾ പഠിച്ചത് ആധുനിക മൈക്രോ ഫാബ്രിക്കേഷൻ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി മൈക്രോ കാന്റിലിവറുകൾ എങ്ങിനെ വികസിപ്പിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇത് മൈക്രോ കാന്റിലിവർ ഫാബ്രിക്കേഷൻ ആണ് തുടർന്ന് കാന്റിലിവർ പാറ്റേൺ ചെയ്യലാണ് പാറ്റേൺ ചെയ്തശേഷം കാന്റിലി വറിന്റെ മുകളിലെ ഉപരിതലത്തിൽ കോശങ്ങൾക്ക് വളരാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന പരിമിതമായ സ്ഥലം ആണ് ഉള്ളത് ഈ കോശങ്ങൾ മയോ ട്യൂബുകൾ ആയി രൂപപ്പെടുന്നു മയോ ട്യൂബുകൾ രൂപപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും മൈക്രോസ്കോപ് ഉപയോഗിച്ച് നോക്കേണ്ടതുണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് അപ്പ് റൈറ്റ് മൈക്രോസ്കോപ്പ് ആവശ്യമായിട്ടുള്ളത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരാവുന്നവയെക്കുറിച്ച് ഞാൻ വളരെ മുമ്പ് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള കാന്റിലിവറുകളിൽ ഭൂരിഭാഗവും സിലിക്കൺ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ പിഡിഎംഎൽ സബ്സ്ട്രേറ്റ് ൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാന്റിലിവർ നിർമ്മാണത്തിന് പല രീതികളും പലതരത്തിലുള്ള പോളിമറുകളും ഉപയോഗപ്പെടുത്താവുന്നതാണ് പി ഡി എം എസ് അഥവാ പോളിഡൈമീഥൈൽസിലോക്സേൻ അത്തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പോളിമർ ആണ് നിങ്ങൾക്ക് അവയെ ശുദ്ധമായ സിലിക്കൺ സബ്സ്ട്രേറ്റുകളിൽ നിർമ്മിക്കാൻ കഴിയും ശുദ്ധമായ സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് ഞാൻ വ്യക്തിപരമായി ഇത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പക്കൽ ഒരു മാസ്ക് ഉണ്ട് നിങ്ങൾ ഒരു ബ്ലോക്ക് സിലിക്കൺ എടുക്കുക നിങ്ങളുടെ കയ്യിൽ മാസ്ക് ഉണ്ട് മാസ്ക് വച്ചശേഷം നിങ്ങളുടെ കാന്റിലിവർ ഘടനയിൽ ആഗ്രഹിക്കുന്ന കനം അനുസരിച്ച് ഉപരിതലം എച്ച് ചെയ്യുക ഇത്തരത്തിൽ പാറ്റേൺ ചെയ്തശേഷം അവയുടെ ഉപരിതലത്തിൽ കോശങ്ങളെ നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ കോശങ്ങൾ ത്വരിത ഗതിയിൽ ഉപരിതലത്തിൽ വളരും ആവശ്യത്തിന് മീഡിയം ഉപയോഗിച്ച് അതിനെ മൂടിയിരിക്കണം അപ്പോൾ ഈ കോശങ്ങൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ അവയ്ക്ക് ലഭിക്കും ഇത്തരത്തിൽ ഈ കോശങ്ങൾ മൈക്രോ കാന്റിലിവറിനു മുകളിൽ വളർന്നാൽ അവ സൃഷ്ടിക്കുന്ന ശക്തി അളക്കാനായി ചില സജ്ജീകരണങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ആ സജ്ജീകരണം എന്താണ് ആ അസംബ്ലി ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു ഉണ്ടാകുന്ന വളവ് അളക്കാൻ കഴിയുമെന്ന് അപ്പോൾ എങ്ങനെയാണ് ഈ വളവ് അളക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മേൽപ്പറഞ്ഞ സജ്ജീകരണം എങ്ങിനെ ഉണ്ടാക്കി എടുക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കൽ ആണ്